ക്ലൌഡ് കമ്പ്യൂട്ടിംഗിനെക്കുറിച്ചുള്ള ചർച്ച നമ്മൾ തുടരും ഇന്ന് ക്ലൌഡ് എക്കണോമിപറ്റിയുള്ള ചോദ്യങ്ങളും ചർച്ചകളും തുടരും അതായത് ക്ലൌഡ് ഉപയോഗിക്കുന്നത് ലാഭകരമാണോ എന്ന് ക്ലൌഡ് ഇക്കണോമിക്സ് പ്രശ്നങ്ങൾ എന്നിവ നമ്മൾ കാണും അങ്ങനെ ഇത് നമ്മളുടെ ആശയം കൂടുതൽ വ്യക്തമാക്കുന്നു അതിനാൽ മുമ്പത്തെ കുറച്ച് സ്ലൈഡ് റീക്യാപ്പ് എന്റെ പക്കലുണ്ട് അതുവഴി പ്രശ്നവുമായി പൊരുത്തപ്പെടാൻ ആവശ്യപ്പെടുന്നത് എളുപ്പമാകും നിങ്ങൾ സാമ്പത്തിക വീക്ഷണകോണിൽ നിന്ന് ക്ലൌഡ് പ്രോപ്പർട്ടിയിൽ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതുപോലുള്ള യൂട്ടിലിറ്റി ആണ് ഇത് മൊത്തത്തിൽ ഇത് ഒരു വിൻ വിൻ ആവശ്യമാണെന്ന് കരുതുക ക്ലൌഡിനായി പോകുന്നത് പ്രയോജനകരമായിരിക്കും സിസ്റ്റത്തിന്റെ ആവശ്യകത ദൈർഘ്യമേറിയതാണെന്ന് കരുതുക ദിവസവും നിങ്ങൾ 12 മണിക്കൂറോ അതിൽ കൂടുതലോ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അതിലും കൂടുതലായിരിക്കാം തുടർന്ന് ക്ലൌഡ് തരത്തിലുള്ള കാര്യങ്ങൾക്കായി പോകുന്നത് എല്ലായ്പ്പോഴും ലാഭകരമായിരിക്കില്ല അതിനാൽ സാമ്പത്തിക വീക്ഷണകോണിൽ നമ്മൾ നോക്കാൻ ശ്രമിക്കും ക്ലൌഡ് കോസ്റ്റ് പോലെയുള്ള മൊത്തത്തിലുള്ള കോസ്റ്റിംഗ് മോഡൽ BT

U അല്ലെങ്കിൽ C യെ B കൊണ്ട് ഹരിക്കുന്നത് യൂട്ടിലിറ്റി പ്രീമിയമാണ് ഈ യൂണിറ്റുകളുടെ ഗുണനമായി 0 മുതൽ t U B D t വരെ കണക്കാക്കാമെന്ന് നമ്മൾ കാണിച്ചുവെന്ന് കണക്കാക്കാം അതുപോലെ മൊത്തം അടിസ്ഥാന ചെലവായ B t എന്നത് P ഗുണം B ഗുണം t കാരണം അടിസ്ഥാന സമയം പീക്ക് സമയം കൈകാര്യം ചെയ്യണം നമ്മൾ അടിസ്ഥാന രൂപകൽപ്പനയുടെ അടിസ്ഥാന ചിലവ് നടത്തുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉടമസ്ഥതയിലോ മറ്റെന്തെങ്കിലുമോ ചെയ്യുമ്പോഴെല്ലാം നമ്മൾ സാധാരണയായി ഏറ്റവും ഉയർന്ന ഡിമാൻഡിനായി നോക്കുന്നു നമ്മളുടെ ടെക് എം ലാബിനായി എനിക്ക് വലിയ മേക്ക് സിസ്റ്റം വേണമെന്ന് കരുതുക അതിനാൽ നിങ്ങൾക്ക് പറയാനുള്ളത് പ്രവേശനം നേടാനാകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം n എന്ന് പറഞ്ഞാൽ അതിനാൽ നമ്മൾ കരുതുന്ന സിസ്റ്റത്തിന്റെ എണ്ണം അത് കുറഞ്ഞത് n ആയിരിക്കണം കാര്യങ്ങളിൽ കുറച്ച് ആവർത്തനം ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരു പരാജയമുണ്ടെങ്കിൽ വീണ്ടെടുക്കൽ എന്നതിനർത്ഥം നമുക്ക് സിസ്റ്റങ്ങൾ മാറ്റിസ്ഥാപിക്കാൻ കഴിയും എന്നാൽ യഥാർത്ഥ കാര്യങ്ങളിൽ വിദ്യാർത്ഥിയുടെ എണ്ണം നമ്മളായിരിക്കില്ല തീരുമാനിക്കുക പ്രവേശനത്തിന്റെ ഒരു പ്രത്യേക വർഷത്തേക്ക് ആ കണക്ക് ആയിരിക്കില്ല സാധാരണയായി ഇത് അതിനേക്കാൾ കുറവായിരിക്കാം അതിനാൽ നിങ്ങൾക്ക് ഉപയോഗശൂന്യമായതോ ഉപയോഗപ്പെടുത്താത്തതോ ആയ ആവർത്തന ഉറവിടങ്ങളുണ്ട് ക്ലൌഡിന്റെ വിലകുറയുന്നതെപ്പോൾ CTയുടെ ഈ വില BT യേക്കാൾ കുറവാണെങ്കിലോ യൂട്ടിലിറ്റി P ഹരണം A ആണെങ്കിൽ P A യേക്കാൾ കുറവാണെങ്കിലോ ക്ലൌഡിന്റെ വില ഉണ്ടെങ്കിൽ ഇവിടെയോ ഇതിലൂടെ യൂട്ടിലിറ്റി പ്രീമിയം എന്തായിരിക്കണം പീക്ക് ഡിമാന്റിന്റെ ശരാശരി ഡിമാൻഡിനേക്കാൾ യൂട്ടിലിറ്റി പ്രീമിയം കുറവാണെങ്കിൽ അത് വിലകുറഞ്ഞതാണെന്ന് നമുക്ക് പറയാം ഇപ്പോൾ യഥാർത്ഥ ലോകത്തിലെ യൂട്ടിലിറ്റി വിലനിർണ്ണയം അത്ര ലളിതമല്ല അവ പ്രായോഗികമായി പോലുള്ള വളരെയധികം കാര്യങ്ങളാണെങ്കിൽ ഉയർന്ന സ്പൈക്കുകളുടെ ആവശ്യങ്ങൾ ഉണ്ട് ഒരുപക്ഷേ വാർത്താ സ്റ്റോറികളോ മാർക്കറ്റിംഗ് പ്രമോഷനോ അടിസ്ഥാനത്തിലാണ് ദൈനംദിന ഉപയോഗത്തിനായി നിങ്ങൾക്ക് ഒരു കാർ ഉണ്ട് നിങ്ങൾ പുറത്തു പോകുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ കൂടുതൽ ദൂരം പോകുമ്പോഴോ നിങ്ങൾ വാടകയ്ക്കെടുത്തവ ഉപയോഗിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സിസ്റ്റം ഉണ്ട് എന്നാൽ ചിലത് ആവശ്യമുള്ളപ്പോൾ ചില ഉയർന്ന ഡിമാൻഡുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കായി പോകുന്നു പ്രധാന ഘടകം വീണ്ടും പീക്ക് മറ്റും പരിഗണിക്കുക അതിനാൽ ഈ ചെലവ് കണക്കാക്കുമ്പോൾ കണക്കാക്കേണ്ട മറ്റ് കാര്യങ്ങളാണിവ ഇത് വീണ്ടും ഒരു സ്ലൈഡ് ആണെന്ന് നമ്മൾ കണ്ടു അവിടെ ഡിമാൻഡ് സേവനങ്ങൾ ഡിമാൻഡ് സേവനങ്ങളുടെ മൂല്യം നിങ്ങളുടെ സ്വന്തം റിസോഴ്സ് സ്വന്തമാക്കുമ്പോൾ നിങ്ങളുടെ റിസോഴ്സ് തൽക്ഷണ ഡിമാൻഡുമായി പൊരുത്തപ്പെടാത്തപ്പോഴെല്ലാം നിങ്ങൾ പിഴ അടയ്ക്കും ഒന്നുകിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത വിഭവത്തിന് പിഴ ഈടാക്കുക അല്ലെങ്കിൽ സേവന ഡെലിവറി നഷ്ടമായതിന് പിഴ അനുഭവിക്കുക അത് അവിടെ ആകാം അതിനാൽ DT തൽക്ഷണ ഡിമാൻഡും RT തൽക്ഷണ വിഭവവുമാണെങ്കിൽ പിഴയുടെ ചിലവ് അതിൻറെ അവിഭാജ്യ ഘടകമാണ് 0 മുതൽ T വരെയുള്ള കാലയളവിൽ D t മൈനസ് R t മോഡ് അവിഭാജ്യമാണ് ഡിമാൻഡ് ഫ്ലാറ്റ് ആണെങ്കിൽ സ്വീകരിക്കും എന്നാൽ മിക്ക കേസുകളും ആവശ്യം ഉയരുകയും പ്രൊവിഷനിംഗ് നടത്തുകയും ചെയ്യുമ്പോൾ ഒരു കാലതാമസമുണ്ട് ഇത് ഒരു വലിയ വെല്ലുവിളി സൃഷ്ടിച്ചേക്കാം കാരണം ഡിമാന്റിന്റെ വളർച്ച എക്സ്പോണൻഷ്യൽ ആണെങ്കിൽ റിസോഴ്സ് പ്രൊവിഷനിംഗ് ഉപയോഗിച്ച് ആ ഡിമാൻഡിനെ പിന്തുടരുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഡിമാൻഡ് എക്സ്പോണൻഷ്യൽ ആണെങ്കിൽ ഇവിടെ പോലെ പവർ T യിലേക്കുള്ള Eയുടെ ചില രൂപമാണ് DT ഏതെങ്കിലും നിശ്ചിത പ്രൊവിഷനിംഗ് ഇടവേള tp ആ അധിക പ്രൊവിഷനിംഗിനായി നിങ്ങൾ തിരയുമ്പോഴെല്ലാം ഇത് പോലെ ഇത് ചില പ്രൊവിഷനിംഗ് ഇടവേളകൾക്കായി നോക്കും നിലവിലെ ഡിമാൻഡ് അനുസരിച്ച് ഏതെങ്കിലുമൊന്ന് അതിന്റെ പിന്നിൽ ഗണ്യമായി കുറയും നമ്മൾ കണ്ടു അതിനാൽ Tt മൈനസ്Tp യുടെ തുല്യമാണ് Rt നിങ്ങൾക്കിടയിൽ ഒരു കാലതാമസമുണ്ട് അതിനാൽ Dt മൈനസ് Rt e പവർ t ലേക്ക് സ്ഥിരമായി എന്തെങ്കിലും കണക്കാക്കിയാൽ അതിനർത്ഥം C ഗുണം K 1 ആണ് e പവർ T യിലേക്ക് ഇത് ഗണ്യമായി വളരുന്നു ലൈക്ക് നിങ്ങൾ ചിത്രം കാണുകയാണെങ്കിൽ അതിനാൽ ഈ പ്രൊവിഷനിംഗ് കാലതാമസം കാരണം ഇത് റിസർവ് ചെയ്യാത്ത ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതിനാൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ പിന്തുടരുക എന്നത് വളരെ പ്രയാസമാണ് ഇവയെല്ലാം പ്രായോഗിക പരിഗണനയാണ് അതിനാൽ ലളിതമായ ഒരു കണക്കുകൂട്ടൽ നടത്തുക എന്നല്ല മറിച്ച് മറ്റ് പരിഗണനകളും ഉണ്ട് അതിനായി ഇത്തവണ ഡിമാൻഡ് ഇതുപോലെ വർദ്ധിക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എന്ന് ഒരു പ്രവചന മാതൃക ഉണ്ടായിരിക്കണം നമ്മളുടെ മറ്റ് വാണിജ്യപരമായ കാര്യങ്ങളിലും ഇവ ശരിയാണ് ചില ദീർഘകാല കാര്യങ്ങളിൽ ആ സമയത്ത് ആവശ്യം വർദ്ധിക്കുകയും അതിനനുസരിച്ച് സംഭരണം നടത്തുകയും ചെയ്യുമോ എന്ന് നമ്മൾ പ്രവചിക്കുന്നു ആവശ്യമെങ്കിൽ അത് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ചില പ്രവചന മാതൃകയും ഇവിടെ ആവശ്യമാണ് ഇപ്പോൾ ഒന്നോ രണ്ടോ പ്രശ്നങ്ങൾ നോക്കാൻ നമ്മൾ ശ്രമിക്കും ഇത് മുഴുവൻ കാര്യങ്ങളിലും കൂടുതൽ വ്യക്തത നേടാൻ നമ്മളെ അനുവദിക്കും അതിനാൽ ഇവ ടോയ് പ്രശ്നങ്ങളാണ് ലളിതമായ പ്രശ്നം എന്നാൽ അങ്ങനെ ചെയ്യുന്നതിലൂടെ ഇത് കാര്യങ്ങളിൽ നമ്മൾക്ക് ഒരുതരം വ്യക്തതയോ ആത്മവിശ്വാസമോ നൽകും അത് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും ഉയർന്ന കമ്പ്യൂട്ടിംഗ് ആവശ്യം 120 യൂണിറ്റാണ് നൽകിയിരിക്കുന്നത് നിലവിലെ ഡിമാൻഡ് നിറവേറ്റുന്നതിനായി ക്ലൌഡ് നൽകുന്ന റിസോഴ്സ് പ്രൊവിഷനിംഗ് ഡി ടിക്ക് തുല്യമാണ് ഡെൽ ഓഫ് ക്യാപിറ്റൽ ഡെൽ ഡി ഡി ടി ഓഫ് ഡി ടി ഇതാണ് റിസോഴ്സ് പ്രൊവിഷനിംഗ് ഡെൽ നഷ്ടമാകും ഇതാണ് പരിഗണന അതിനാൽ നമ്മൾ പിഴ കണക്കാക്കേണ്ടതുണ്ട് നമുക്ക് വളരെ നേരെയുള്ള ഒരു ജോലി ചെയ്യാം കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാം തന്നിരിക്കുന്ന സമവാക്യത്തിൽ നിന്ന് എനിക്ക് നിങ്ങളുടെ R 0 മുതൽ pi ഇന്റഗ്രൽ 0 മുതൽ pi വരെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ഈ ഭാഗം നോക്കിയാൽ അതിനാൽ ഇത് ഡിടി 30 ന്റെ ഡെൽ ആണ് അതിനാൽ മറ്റൊരു അർത്ഥത്തിൽ ഇത് നമുക്ക് ഉണ്ടാകാം നിങ്ങൾ കണക്കുകൂട്ടൽ തുടരുകയാണെങ്കിൽ ഇത് ടി 0 മുതൽ പൈ വരെ 2 മുതൽ 50 വരെ മൈനസ് കോസ് ആണ് കൂടാതെ ടി പൈയുടെ 2 മൈനസ് കോസ് ആണ് നിങ്ങൾ കണക്കുകൂട്ടാൻ പോയാൽ ഇത് 70 ആയി വരും നിങ്ങൾ നോക്കിയാൽ നമ്മൾക്ക് ഒടുവിൽ ഉള്ളത് R 70 പ്ലസ് 30 പൈക്ക് 12 ന് തുല്യവും നിങ്ങളുടെ ഡി മൂല്യം 70 ഉം ആണ് അതിനാൽ ആർ മൈനസ് ഡി മോഡ് 30 പൈ മുതൽ 12 വരെ 7 86 ന് തുല്യമാണ് നമുക്ക് ലഭിക്കുന്ന ഉത്തരം ഇതാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഇത് യോജിക്കുന്നുവെങ്കിൽ നമ്മൾ ശിക്ഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ തുല്യമായ പിഴ 0 ന് ആനുപാതികമാണ് ഡിറ്റിയുടെ 2 പൈ ഡിമാൻഡ് മൈനസ് മോഡ് ഇവയെ പെനാൽറ്റിയുടെ മൂല്യമായി നമുക്ക് ലഭിക്കുന്നു കാരണം ഈ സാഹചര്യത്തിൽ നമ്മൾ പറയുന്നത് നിങ്ങളുടെ വിഭവ ലഭ്യതയാണ് നിങ്ങളേക്കാൾ വലുതാണ് പ്രൊവിഷൻ ചെയ്തത് ആവശ്യം നമ്മൾക്ക് ഒരു പോസിറ്റീവ് മൂല്യം ലഭിക്കും ഇത് വീണ്ടും നമ്മൾ കണക്കാക്കുന്ന സമവാക്യത്തിൽ നിന്നാണ് ഈ കണക്കുകൂട്ടൽ പാതയെല്ലാം ഞാൻ വീണ്ടും പറയണം മറ്റ് ഘടകങ്ങൾ നമ്മൾ പരിഗണിച്ചു നെറ്റ്വർക്ക് പ്രൊവിഷനിംഗ് അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള അറ്റകുറ്റപ്പണി ചെലവുകൾ എന്നിവയും നമ്മൾ പരിഗണിച്ചു നമ്മളെ പരിഗണിക്കാത്തവ ഇതുപോലുള്ള മറ്റൊരു പ്രശ്നം നോക്കിയാൽ ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും ഉയർന്ന കമ്പ്യൂട്ടിംഗ് ആവശ്യം 100 യൂണിറ്റാണെന്ന് പരിഗണിക്കുക ഡിമാൻഡ് പ്രകടിപ്പിക്കാവുന്ന ഒരു ഫംഗ്ഷനാണ് അത് സി ടി 0 ആയി ടി യു ഗുണം ബി ഗുണം ഡി ഇതുപോലെ കാണാനാകും അതിനാൽ നമ്മൾ ചർച്ച ചെയ്ത ഫംഗ്ഷനാണിത് നമ്മൾ പറയുന്നത് ക്ലൌഡ് സിടിയുടെ വില 0 മുതൽ ടി വരെ തുല്യമാണ് യു ഗുണം ബി ഇതിലേക്ക് ഇത് നമ്മൾ ഇതിനകം കണ്ടതാണ് ഇവിടെ ഇതാണ് മൊത്തം ക്ലൌഡ് ചെലവ് ഇത് നമ്മൾ ഇതിനകം കണ്ടു യഥാർത്ഥത്തിൽ നമ്മൾ ആണെങ്കിൽ ഡിമാൻഡ് ഫംഗ്ഷൻ ദയവായി ശ്രദ്ധിക്കുക അവിടെ അത് ഇവിടെ പരാമർശിച്ചിട്ടില്ല കുറച്ച് അക്ഷരത്തെറ്റുണ്ട് ഒരു സമയമായി പ്രകടിപ്പിക്കുന്ന ഡിമാൻഡ് പവർ മൈനസ് ടിയിലേക്ക് 50 മുതൽ 1 വരെ പ്ലസ് ഇ ആയി പ്രകടിപ്പിക്കാൻ കഴിയും ഞാൻ വീണ്ടും ചോദ്യം വ്യാഖ്യാനിക്കാം ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും ഉയർന്ന കമ്പ്യൂട്ടിംഗ് ആവശ്യം 100 യൂണിറ്റാണെന്ന് പരിഗണിക്കുക സമയത്തിന്റെ പ്രവർത്തനമെന്ന നിലയിൽ ഡിമാൻഡ് ഇതുപോലെ പ്രകടിപ്പിക്കാൻ കഴിയും അതിനാൽ ഡിമാൻഡ് ഡിടി ഇതുപോലെ പ്രകടിപ്പിക്കുന്നു ചോദ്യത്തിൽ ഇത് ഇല്ല കാരണം ചില നഷ്ടമായ പദങ്ങളുണ്ട് അതിനാൽ പവർ മൈനസ് ടിയിലേക്ക് 1 പ്ലസ് ഇ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുക ഡിമാൻഡ് എന്നത് സമയത്തിന്റെ പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മൾ അടിസ്ഥാന യൂണിറ്റ് ചെലവ് അധികമായി നൽകുന്നത് 120 ആണ് യൂണിറ്റ് ചെലവിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അടിസ്ഥാന ലൈൻ 120 ഉം ക്ലൌഡ് യൂണിറ്റിന്റെ വില 200 ഉം ആണ് ഈ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് 100 യൂണിറ്റ് സമയത്തേക്കാൾ ക്ലൌഡ് വിലകുറഞ്ഞതാണ് അതിനാൽ ക്ലൌഡ് വിലകുറഞ്ഞതാണോയെന്ന് കണക്കാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് 100 യൂണിറ്റ് തവണയായിരിക്കും നിങ്ങൾ ഇവിടെ ചേർക്കേണ്ടത് എന്താണ് ഇത് 100 യൂണിറ്റ് സമയമാണോ എന്ന് നിങ്ങൾ കണക്കാക്കേണ്ടതുണ്ട് അത് ഒരു ഉപയോഗമാണെങ്കിൽ ഇത് വീണ്ടും നേരെ മുന്നോട്ട് മൊത്തം അടിസ്ഥാന ചെലവ് BT P ഗുണം t ഗുണം B യിലേക്ക് 100 മുതൽ 120 വരെ തുല്യമായി ഞാൻ കാണുന്നുവെങ്കിൽ 0 മുതൽ 100 വരെ തുല്യമായ ടി യുടെ മൊത്തം ക്ലൌഡ് വില ടി യുടെ സി ഡി 0 മുതൽ 100 വരെ ഇന്റഗ്രലിന് തുല്യമായ ഡിടി 200 50 1 മൈനസ് 1 പ്ലസ് മൈനസ് ഇത് ഡിടിയിലേക്ക് നിങ്ങൾ ഒരു സംയോജനം നടത്തുകയാണെങ്കിൽനിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് ഏകദേശം 1010 ആയി കണക്കാക്കും നിങ്ങൾ ആ കണക്കുകൂട്ടൽ നടത്തുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ലഭിക്കുന്നത് 120 1 2 3 4 5 1 2 3 4 5 പിഴ അതിനാൽ നമ്മൾ യൂട്ടിലിറ്റി ചെയ്യുന്നത് യൂട്ടിലിറ്റി പ്രീമിയം ഇതിൽ നിന്ന് എന്നപോലെ അതിനാൽ 0 84 അല്ലെങ്കിൽ യൂട്ടിലിറ്റി പ്രീമിയം യു നമുക്ക് ലഭിക്കുന്നത് യു 1 ആണ് അതിനാൽ അതിനർത്ഥം കുറഞ്ഞത് ഈ സാഹചര്യത്തിൽ ക്ലൌഡ് വിലകുറഞ്ഞതായിരിക്കും അതിനാൽ എന്താണ് വ്യത്യസ്തമെന്ന് കണ്ടെത്താൻ എനിക്ക് ലളിതമായ കണക്കുകൂട്ടൽ നടത്താം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത കേസുകൾ എന്തൊക്കെയാണ് നമുക്ക് മറ്റൊരു പ്രശ്നം നോക്കാം ഇവിടെ ഒരു കമ്പനി എക്സ് ആവശ്യപ്പെടുന്ന സമയത്ത് ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ അത് ജനപ്രിയമാകുമ്പോൾ അതിനെ പിന്തുണയ്ക്കേണ്ടതുണ്ട് തുടർന്ന് സന്ദർശകരിൽ ചിലർ പിന്തിരിയുമ്പോൾ അത് കുറയ്ക്കാൻ സാധ്യതയുണ്ട് ഡിമാൻഡിൽ കുതിച്ചുചാട്ടവും വീഴ്ചയും ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരു പട്ടികയിൽ നൽകിയിരിക്കുന്ന ആവശ്യകത നിറവേറ്റുന്നതിന് കമ്പനിക്ക് രണ്ട് ഓപ്ഷനുകളുണ്ട് ഹൌസ് ചെലവ് എന്താണെന്നും ക്ലൌഡ് സെർവർ ഒരു തരത്തിൽ വാങ്ങൽ ചെലവില്ലെന്നും അത് പറയുന്നു ഹൌസ് സെർവറിൽ എണ്ണം 12 ഉം ക്ലൌഡ് സെർവർ 8 ഉം ആണ് നിങ്ങൾ വാടകയ്ക്കെടുക്കുമ്പോൾ ക്ലൌഡ് സെവറിനായി 3 വർഷത്തിൽ കൂടുതൽ മണിക്കൂറിൽ ചിലവ് ഇത് മണിക്കൂറിൽ 42 യൂണിറ്റ് ചിലവാണ് ഇൻ ഹൌസ് സെർവറിന്റെ കാര്യക്ഷമത കാരണം അത് ഉപയോഗശൂന്യമാണ് ഇത് 40 ശതമാനമാണ് അതേസമയം ക്ലൌഡ് സെർവർ 80 ശതമാനമാണ് കാരണം ഡിമാൻഡ് ഉള്ളപ്പോൾ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നു ഹൌസ് സെർവറിൽ പവർ കൂളിംഗ് ആവശ്യകത 22 ആണ് അതേസമയം ക്ലൌഡ് സെർവർ ശൂന്യവും മണിക്കൂറിൽ മാനേജുമെന്റ് ചെലവ് 6 ഉം ആണ് ഹ server സ് സെർവറിലും ക്ളൌഡ് സെർവറിലും ഇത് 1 ആണ് വീണ്ടും വാങ്ങൽ ചെലവ് ഹൌസ്ൽ 6 ലക്ഷവും ക്ലൌഡിന് വേണ്ടിയുമാണ് ഹൌസ് സിപിയു കോറിന്റെ എണ്ണം 12 ക്ലൌഡ് 8 3 വർഷ കാലയളവിൽ അല്ലെങ്കിൽ മറ്റൊന്നിൽ മണിക്കൂറിന് ചെലവ് ക്ളൌഡ്നുള്ള മാർഗ്ഗം 42 യൂണിറ്റാണ് അതേസമയം ഹൌസ്ലെ ചെലവ് സമയമില്ല നിങ്ങൾക്ക് സാധനം വാങ്ങിയ ശേഷം കഴിയും നിങ്ങൾ 40 ശതമാനം ആണെങ്കിൽ മിക്ക കാര്യങ്ങളും ഉള്ളതിനാൽ 60 മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല ക്ളൌഡ് വിച്ഛേദിക്കുമ്പോൾ ഇത് 80 ശതമാനം വൈദ്യുതിയും തണുപ്പിക്കൽ 22 ഉം ഒരു ക്ളൌഡ്ന്റെ കാര്യത്തിൽ മണിക്കൂറിൽ മാനേജുമെന്റ് ചെലവും ഇല്ല അത് 6 ഉം അത് 1 ഉം ആണ് ഈ ഡാറ്റ ഉപയോഗിച്ച് നിങ്ങൾ കണക്കാക്കേണ്ടത് എന്താണ് ഹൌസ്ലെയും ക്ലൌഡ് സെർവറിലെയും ഒരു കോർ മണിക്കൂറിന്റെ വില കണക്കാക്കുക അത് വ്യക്തമാണ് 3 വർഷം കണക്കിലെടുത്ത് നമ്മൾക്ക് മണിക്കൂറിന് ചിലവ് 3 ഗുണം 365 ഗുണം 24 കൊണ്ട് ഹരിക്കുന്നു നിങ്ങൾ കണക്കാക്കിയാൽ അത് ഏകദേശം 22 83 രൂപയാണ് അത് ഇന്ത്യൻ കറൻസിയോ വിലയുടെ യൂണിറ്റുകളോ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് ഹൌസ്ൽ ചിലവ് ഉണ്ടെങ്കിൽ സെർവർ ഇത് 22 83 ബൈ 12 ആണ് കാരണം ആദ്യത്തെ ചോദ്യം കോർ മണിക്കൂർ ആയിരുന്നു ഹൌസ് സെർവറിൽ അതിനാൽ ഹൌസ് സെർവറിലെ പ്രധാന മണിക്കൂർ ഇത് 1 90 യൂണിറ്റാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു പുതിയ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ അതിനാൽ ക്ലൌഡ് സെർവറിനുള്ള പ്രധാന മണിക്കൂർ 42 ബൈ 8 ആണ് 5 25 INR ചോദ്യത്തിൽ നിന്ന് ഇത് നേരിട്ട് വരുന്നു ഇപ്പോൾ ഒരു ചോദ്യം ബി രണ്ട് ഓപ്ഷനുകൾക്കും ഫലപ്രദമായ മണിക്കൂറിന് ചെലവ് കണ്ടെത്തുക ഹൌസ്ലെ ഫലപ്രദമായ ഒരു മണിക്കൂറിന് 22 83 ആണ് ചെലവ് കാരണം ഇത് 40 ശതമാനം കാര്യക്ഷമമാണ് അതിനാൽ 40 ബൈ 100 അതിനാൽ ഇത് 57 075 അതിനാൽ ഇത് INR അല്ലെങ്കിൽ എന്തോ ആണ് യൂണിറ്റ് എന്തായാലും ക്ലൌഡിന് തുല്യമായ സമയം 80 ശതമാനം കാര്യക്ഷമതയാണ് അതിനാൽ 5 അതിനാൽ ഇത് ഫലപ്രദമാണ് ഇപ്പോൾ ക്ലൌഡ് വിന്യാസത്തിന് ഫലപ്രദമായ മണിക്കൂറിന് ആകെ ചെലവിന്റെ അനുപാതം കണക്കാക്കുക ഇപ്പോൾ ക്ലൌഡ് വിന്യാസത്തിലും ഫലപ്രദമായ മണിക്കൂറിന് ആകെ ചെലവിന്റെ അനുപാതം കണക്കാക്കേണ്ടതുണ്ട് അതിനാൽ ഫലപ്രദമായ ഒരു മണിക്കൂറിന് ആകെ ചെലവ് 57 075 നിങ്ങൾ നേരത്തെ കണക്കുകൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇൻ ഹൌസ് സെവർ പ്ലസ് 22 നുള്ളതാണ് കാരണം ഇത് ഒരു പവർ കൂളിംഗ് പ്ലസ് 6 എന്നിവയാണ് ക്ലൌഡിന് സമാനമായത് 52 5 ന് തുല്യമാണ് ഇതിന് ഒരു മാനേജുമെന്റ് മാത്രമേയുള്ളൂ അതിനാൽ ഇത് 53 5 ആണ് അത് INR പിഴയോ യൂണിറ്റ് ആണെങ്കിലോ ഇൻ ഹൌസ് ലെ ഫലപ്രദമായ മണിക്കൂറിന്റെ അനുപാതം ക്ളൌഡ് 85 075 ന് തുല്യമായ 53 5 അതിനാൽ 1 59 ഒടുവിൽ ഇൻ ഹൌസ് വേർപെടുത്തുന്ന യൂണിറ്റുകളുടെ കാര്യക്ഷമത 70 ശതമാനമാണെങ്കിൽ ചെലവ് കുറഞ്ഞ മണിക്കൂറിൽ ഏത് വിന്യാസം മികച്ചതായിത്തീരും ഇതിന് ഇപ്പോൾ കാര്യക്ഷമതയുണ്ട് 40 നിങ്ങൾ 70 ശതമാനമായി വർദ്ധിക്കുകയാണെങ്കിൽ അതിനാൽ ഇത് മികച്ചതായിരിക്കും അതിനാൽ ഇൻ ഹൌസ് ഒരു പ്ലസ് പ്രാബല്യത്തിലുള്ള മണിക്കൂറിന് പരിഷ്കരിച്ച ചെലവ് 22 83 ആയിരിക്കും 70 ശതമാനം ഇപ്പോൾ 100 ശതമാനം അതിനാൽ നമ്മൾക്ക് 32 61 ലഭിക്കും മൊത്തം ചെലവും ഇൻ ഹൌസ് ഫലപ്രദമായ മണിക്കൂറും എല്ലാം ഫലപ്രദമായ ഒരു മണിക്കൂറിന് ഇൻ ഹൌസ് ആകെ ചെലവാകും ഇപ്പോഴും ഇത് ഇൻ ഹൌസ്ലുണ്ട് ഇപ്പോഴും ഇത് 32 61 പ്ലസ് 22 പ്ലസ് 6 ആണ് 60 61 ന് തുല്യമാണ് എന്നാൽ ക്ളൌഡ് ഇപ്പോഴും 53 25 ആണെന്ന് കണ്ടാൽ ഇപ്പോൾ അതിനുപകരം 70 ശതമാനം വർധനവാണ് ഇത് ഹൌസ് 90 ശതമാനമാണെങ്കിൽ നിങ്ങൾ സമാന കണക്കുകൂട്ടൽ നടത്തുകയാണെങ്കിൽ ഈ മൂല്യത്തിന് പകരം നമ്മൾക്ക് ലഭിക്കുന്നത് നമ്മൾ ഫലപ്രദമായി നൽകും അതിനാൽ 22 83 ബൈ 90 90 ബൈ 100 ഇത് 25 37 അതിനാൽ 90 ശതമാനത്തിനായുള്ള ഈ മൊത്തം ചെലവ് 25 37 പ്ലസ് 22 പ്ലസ് 6 ആയി മാറും 53 37 രൂപ ഇത് 90 ശതമാനമാണെങ്കിൽ നിങ്ങൾ 90 ശതമാനം കണ്ടാൽ ഈ ക്ളൌഡ് നെക്കാൾ നല്ലത് നിങ്ങൾ പ്രശ്നം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യക്ഷമത കുറവാണെങ്കിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഇൻ ഹൌസ്ന്റെ മൊത്തത്തിലുള്ള വിനിയോഗം വളരെ ഉപയോഗശൂന്യമാണ് നിങ്ങൾക്ക് അവ നഷ്ടപ്പെടും ഫലപ്രദമായി നമുക്ക് കുറവ് ലഭിക്കുന്നു എന്നതിനർത്ഥം ക്ലൌഡിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുമെന്നാണ് എന്നിരുന്നാലും നിങ്ങളുടെ കാര്യക്ഷമത വർദ്ധിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ 90 ശതമാനം വരെ കണ്ടതുപോലെ ഇത് വളരെയധികം ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ അത് മികച്ചതായിരിക്കാം അത് ക്ലൌഡിനേക്കാൾ മികച്ച പ്രകടനം തിരിച്ചുള്ളതായിരിക്കും ഉദാഹരണത്തിന് ഇത് വളരെ സിന്തറ്റിക് ആണ് നിങ്ങൾ കൂടുതൽ ഉപയോഗത്തിലാണെങ്കിൽ കാര്യക്ഷമത ഉണ്ടെങ്കിൽ ഈ സാഹചര്യത്തിൽ ക്ലൌഡ് തരത്തേക്കാളും ക്ലൌഡ് വാങ്ങുന്നതിനേക്കാളും മികച്ചതാണ് ഇൻ ഹൌസ് എന്ന് കാണിക്കുന്നു എല്ലാം മൊത്തത്തിൽ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങളുടെ ആവശ്യം എന്താണ് എന്ത് തരത്തിലുള്ള ഡിമാൻഡാണ് ഉള്ളത് എത്ര കാലം കാര്യങ്ങൾ ഉണ്ട് അതിനാൽ നിങ്ങൾ ഒരു ക്ലൌഡ് തരത്തിനായി പോയാലും നമ്മൾ ഒരു കോൾ എടുക്കേണ്ടതുണ്ട് ക്ലൌഡ് സേവന ദാതാവിലേക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളതിനോ സാമ്പത്തികമായി പ്രയോജനകരമാണ് ഈ മൂന്ന് ക്ലൌഡിന്റെ സാമ്പത്തിക മാതൃകയിലെ ചെറിയ പ്രശ്നങ്ങളാണ് ലളിതമായ കണക്കുകൂട്ടലിലൂടെ നമുക്ക് എങ്ങനെ കണ്ടെത്താനാകുമെന്ന് കാണിക്കുന്നു യഥാർത്ഥ പ്രയോഗത്തിൽ ഇവ ചർച്ച ചെയ്തതുപോലെ പാരാമീറ്ററുകൾക്കായി മറ്റുള്ളവ പരിഗണിക്കുന്നതിൽ കൂടുതൽ സങ്കീർണ്ണമാണ് ഈ ക്ലൌഡിന് പിന്നിലുള്ള ഈ സമ്പദ്വ്യവസ്ഥയെ പറ്റി അറിയുന്നതിനോ നന്നായി മനസ്സിലാക്കുന്നതിനോ ഇത് നിങ്ങളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു